ഹലോ സെക്യൂർ സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് ക്ലാസിലേക്ക് സ്വാഗതം ക്ലാസുകളുടെ ഈ ശ്രേണിയിൽ നമ്മൾ ട്രസ്റ്റഡ് എക്സിക്യൂഷൻ എൻവിറോമെൻറ്നെക്കുറിച്ച് കാണുന്നു ഈ ക്ലാസ്സിൽ നമ്മൾ ARM Trust Zoneനെ കുറിച്ച് വിശദമായി പഠിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും നിങ്ങൾക്ക് ട്രസ്റ് സോൺ ആർക്കിടെക്ചർനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും ARM ട്രസ്റ്റ്സോണിലേക്ക് പോകുന്നതിനുമുമ്പ് സിസ്റ്റം ഓൺ ചിപ്പ് എന്നത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പരിശോധിക്കാം സിസ്റ്റം ഓൺ ചിപ്പ് ഇതുപോലെയായിരിക്കും അതിന് വ്യത്യസ്ത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു വിവിധ ഘടകങ്ങൾ ഉണ്ടായിരിക്കാം ഇതിൽ ഒരു പ്രധാന പ്രോസസ്സർ ഉണ്ടായിരിക്കും ധാരാളം വ്യത്യസ്ത മോഡമുകൾ ഉണ്ട് ഉദാഹരണത്തിനു GSM 3G modem ഇത് ഒരു സാധാരണ മൊബൈൽ ആപ്ലിക്കേഷനു വേണ്ടി ഉപയോഗിക്കുന്നു കൂടാതെ എഡിസി ഡിഎസി ടൈമറുകൾ മുതലായ മറ്റ് ഘടകങ്ങൾ ഇവയെല്ലാം ഒരൊറ്റ ചിപ്പിൽ കാണാൻ കഴിയും ചിപ്പ് ആർക്കിടെക്ചറിൽ അത്തരമൊരു സിസ്റ്റം ഉണ്ടായിരിക്കുന്നതിന്റെ പ്രയോജനം നിങ്ങളുടെ system design ൻറെ വലുപ്പം ഗണ്യമായി കുറയുന്നു എന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു മൊബൈൽ ഫോണിന്റെ കാര്യം എടുക്കുക നിങ്ങളുടെ മൊബൈൽ ഫോൺ തുറന്നാൽ അതിൽ വളരെ കുറച്ച് ഐസികൾ മാത്രമേ ഉള്ളൂവെന്ന് കാണാം കാരണം ഈ ഐസി ഓരോന്നിനും വ്യത്യസ്തമായ പ്രവർത്തന മേഖലകളുണ്ട് സിസ്റ്റം ഓൺ ചിപ്പ് architectureനു മുമ്പുള്ള വർഷങ്ങളിൽ ഈ ഓരോ മോഡ്യൂളിനും ഓരോ ഐസി ഉണ്ടായിരുന്നു അതിനാൽ നിങ്ങളുടെ മുഴുവൻ designന്റേയും വലുപ്പം വളരെ വലുതായിരിക്കും ഇപ്പോൾ സിസ്റ്റം ഓൺ ചിപ്പ്ന്റെ വരവോടെ ഈ ഘടകങ്ങളെല്ലാം ഒരൊറ്റ ചിപ്പിൽ ഇടുന്നതിലൂടെ വലുപ്പം ഗണ്യമായി കുറഞ്ഞു ഇതു യഥാർത്ഥത്തിൽ മൊബൈൽ ഫോണുകളുടെ വലുപ്പം മുതലായ നിരവധി വ്യത്യസ്ത അവസരങ്ങൾക്കു കാരണമായി അതിനാൽ ഈ പ്രത്യേക സാങ്കേതികവിദ്യയ്ക്ക് നമ്മൾ നന്ദി പറയണം ഇപ്പോൾ നമ്മൾ ARM ട്രസ്റ്റ്സോണിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പരിശോധിക്കുന്നു ARM ട്രസ്റ്റ്സോൺ രണ്ട് പാർട്ടീഷനുകൾ സൃഷ്ടിക്കുന്നു ചിത്രത്തിൽ കാണുന്നതുപോലെ ഒരു സാധാരണ ലോകവും സുരക്ഷിത ലോകവും നിങ്ങളുടെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഐഒഎസ് പോലുള്ള സാധാരണ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളതാണ് സാധാരണ ലോകം നിങ്ങളുടെ വാട്ട്സ്ആപ്പ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോലുള്ള സാധാരണ ടാസ്ക്കുകൾ ഈ ലോകത്ത് പ്രവർത്തിക്കുന്നു തന്ത്രപ്രധാനമായ ചുമതല നിർവഹിക്കുന്ന ഒരു സുരക്ഷിത ലോകം കൂടി നമ്മൾക്കു ഉണ്ടായിരിക്കും സെൻസിറ്റീവ് ആയ പ്രവർത്തനങ്ങളായ എൻക്രിപ്ഷൻ അല്ലെങ്കിൽ പാസ്വേഡുകൾ അല്ലെങ്കിൽ ഒടിപി നമ്പറുകൾ പോലുള്ളപോലുള്ളവ സുരക്ഷിത ലോകം കൈകാര്യം ചെയ്യും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇത് പരിഗണിക്കാം നിങ്ങൾക്ക് സാധാരണ ആപ്ലിക്കേഷനുകൾ ഉണ്ടായിരിക്കും ഒപ്പം എന്തെങ്കിലും സെൻസിറ്റീവ് പ്രവർത്തനം നടത്തേണ്ടി വരുമ്പോഴെല്ലാം പ്രോസസർ സുരക്ഷിത ലോകത്തേക്ക് മാറുന്നു അവിടെ നിങ്ങൾക്ക് പാസ്വേഡ് authentication അല്ലെങ്കിൽ നിങ്ങളുടെ ഒടിപി നൽകുകയോ അല്ലെങ്കിൽ കൂടുതൽ സ്ഥിരീകരിക്കുന്ന ഒരു എൻക്രിപ്ഷൻ ചെയ്യുകയോ ചെയ്യാം അത് പരിശോധിച്ചുറപ്പിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ ലോകത്തിലേക്ക് മടങ്ങും ARM ഈ പ്രത്യേക അന്തരീക്ഷം പ്രദാനം ചെയ്യുകയും സാധാരണ ലോകവും സുരക്ഷിത ലോകവും തമ്മിലുള്ള ഈ സ്വിച്ചിംഗ് നൽകുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു സാധാരണ ലോക ആപ്ലിക്കേഷനുകൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയാത്തതോ സുരക്ഷിത ലോക ആപ്ലിക്കേഷനുകളിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ടതോ ആയ രീതിയിലാണ് ഹാർഡ്വെയർ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു അതിനാൽ സുരക്ഷിതമായ ലോകത്ത് ചെയ്യുന്ന എല്ലാ സെൻസിറ്റീവ് വിവരങ്ങളും സുരക്ഷിത കണക്കുകൂട്ടലുകളും പൂർണ്ണമായും ഒറ്റപ്പെട്ടതും പൂർണ്ണമായും സാധാരണ ലോക പ്രവർത്തനങ്ങളിൽ നിന്ന് വിഭിന്നമാണ് സാധാരണ ലോകത്തിൽ കണ്ടുവരുന്ന സോഫ്റ്റ്വെയർ vulnerability malicious code അല്ലെങ്കിൽ malware എന്നിവയ്ക്ക് പ്രധാനമായ വിവരങ്ങൾ മോഷ്ടിക്കാൻ കഴിയില്ല അത് സുരക്ഷിതമായ ലോക പ്രവർത്തനങ്ങളെ ബാധിക്കില്ല അതിനാൽ ഇത് സാധാരണയായി എങ്ങനെ കാണപ്പെടുമെന്നതിന്റെ ഒരു ഉദാഹരണം നോക്കാം ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ സാധാരണ ലോകത്ത് പ്രവർത്തിക്കുന്ന ഒരു ARMORY ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് കരുതുക സാധാരണ ലോകത്ത് നിലവിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ rich OS എന്ന് വിളിക്കുന്നു അതിനാൽ നിങ്ങളുടെ സാധാരണ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഐഒഎസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം rich OS ആണ് കാരണം ഇത് വിവിധ സവിശേഷതകളാൽ നിറഞ്ഞതാണ് മാത്രമല്ല നിങ്ങളുടെ മിക്ക ആപ്ലിക്കേഷനുകളും ഈ ഒഎസിൽ പ്രവർത്തിക്കുകയും പ്രത്യേക ഓപ്പറേറ്റിംഗ് സിസ്റ്റം പിന്തുണയ്ക്കുന്ന വിവിധ സവിശേഷതകൾ ഉപയോഗിക്കുകയും ചെയ്യും നിങ്ങളുടെ rich OS ൽ നിന്ന് ഈ ARMORY ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നുവെന്ന് പറയാം ഉപയോക്താവിന് ഒരു PIN നൽകണമെന്ന് പറയുന്ന ഒരു ബട്ടൺ ഇവിടെയുണ്ട് ഈ ബട്ടൺ അമർത്തുമ്പോൾ റിച്ച് OS സാധാരണ ലോകത്ത് നിന്ന് സുരക്ഷിതമായ ലോകത്തിലേക്ക് മാറുന്നു അത്തരമൊരു സാഹചര്യത്തിൽ അവിടെ ഒരു ട്രസ്റ്റഡ് എക്സിക്യൂഷൻ ഉണ്ടാകും ഈ പ്രത്യേക മോഡിൽ അല്ലെങ്കിൽ സുരക്ഷിത ലോകത്ത് ഇതുപോലുള്ള ഒരു വിൻഡോ പോപ്പ് അപ്പ് ചെയ്യുകയും ഒരു PIN നൽകാൻ ഉപയോക്താവിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യും സുരക്ഷിത ലോകത്തിലെ ഈ ഇടപാടുകളെല്ലാം പൂർണ്ണമായും isolated ആയതോ പൂർണ്ണമായും സുരക്ഷിതമായി ചെയ്തതോ ആണ് സാധാരണ ലോകത്തിലെ നിലവിലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷനുകളിൽ നിന്ന് ഇത് ആക്സസ് ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ സാധാരണ ലോകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന Android അല്ലെങ്കിൽ IOS ന് പോലും യൂസർ നൽകിയ PIN ലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല ഡിസ്പ്ലേ ഡ്രൈവറിലൂടെയും ഇൻപുട്ട് ഡ്രൈവറിലൂടെയും PIN നൽകി കഴിഞ്ഞാൽ ഒരു trusted user interface ഈ വിവരങ്ങൾ വായിക്കുകയും വിശ്വസനീയമായ ആപ്ലിക്കേഷനിലേക്ക് കൈമാറുകയും ചെയ്യും അതിനുശേഷം trusted environmentൽ സംഭരിച്ചിരിക്കുന്ന keys ഉപയോഗിച്ച് PIN authenticate ചെയ്യുന്നു Authentication ശരിയാണെങ്കിൽ OK മെസ്സേജ് സാധാരണ ലോക ആപ്ലിക്കേഷനായ ARMORY ആപ്ലിക്കേഷനിലേക്ക് തിരികെ അയയ്ക്കുകയും ഈ ആപ്ലിക്കേഷന്റെ യൂസർ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് തുടരുകയും ചെയ്യും ഇതെല്ലാം സംഭവിക്കുന്നത് ARM ട്രസ്റ് സോൺ കാരണം ആണ് എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ കീകളും ഈ ട്രസ്റ്റഡ് environment ൽ നടക്കുന്ന എല്ലാ authentication നും അർത്ഥമാക്കുന്നത് സുരക്ഷിത ലോകം യൂസർ ആപ്ലിക്കേഷനുകളിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപെട്ടതാണ് എന്നാണ് സാധാരണ ലോകത്തിലെ സിസ്റ്റത്തിൽ ഏതെങ്കിലും malicious കോഡ് ഉണ്ടായിരുന്നിട്ടും കീകളും മറ്റും സുരക്ഷിതമാണ് നിങ്ങളുടെ Android അല്ലെങ്കിൽ IOS compromise ആയാലും വിശ്വസനീയമായ അന്തരീക്ഷത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കീ എപ്പോഴും സുരക്ഷിതമാണ് രണ്ട് പരിതസ്ഥിതികളും സാധാരണ ലോക പരിതസ്ഥിതിയും സുരക്ഷിത ലോക പരിതസ്ഥിതിയും ഒരേ പ്രോസസ്സറിനുള്ളിൽ ARM യഥാർത്ഥത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ അൽപ്പം നോക്കുന്നു അടിസ്ഥാനപരമായി ഈ രണ്ട് പരിതസ്ഥിതികളും സമയബന്ധിതമായി പ്രവർത്തിക്കുന്നു അതിനാൽ സുരക്ഷിത ലോകത്ത് നിന്ന് സാധാരണ ലോകത്തിലേക്കും തിരിച്ചും മാറാൻ കഴിയുന്നു മോണിറ്റർ മോഡ് എന്നറിയപ്പെടുന്ന ഒരു പുതിയ ഓപ്പറേഷൻ മോഡ് ഉണ്ട് ഒരു മോഡിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോഴെല്ലാം അത് invoke ചെയ്യുന്നു മടങ്ങിയെത്തുമ്പോൾ ഈ മോഡ് സ്വിച്ചിംഗ് പ്രവർത്തനക്ഷമമാക്കുന്നതിന് രണ്ട് വഴികളുണ്ട് ആദ്യ മാർഗം സോഫ്റ്റ്വെയർ വഴിയാണ് സെക്യുർ മോണിറ്ററിംഗ് കോൾ അല്ലെങ്കിൽ എസ്എംസി ഇൻസ്ട്രക്ഷൻ രണ്ടാമത്തേത് ഹാർഡ്വെയർ interrupt അല്ലെങ്കിൽ exception ഉണ്ടാകുന്ന സമയത്തും സാധാരണ മോഡിൽ നിന്ന് സുരക്ഷിത മോഡിലേക്ക് മാറാം ഈ മോഡ് സ്വിച്ചിംഗ് സമയത്ത് മോണിറ്റർ മോഡ് ഒരു നിർണായക പങ്ക് വഹിക്കുന്നു ഇത് ആദ്യം ചെയ്യുന്നത് സാധാരണ ലോകമോ സുരക്ഷിതമായ ലോകമോ ആയ നിലവിലെ systemന്റെ അവസ്ഥയെ സംരക്ഷിക്കുകയും പിന്നീട് സ്വിച്ച് ചെയ്ത ലോകത്തിന്റെ അവസ്ഥ പുനസ്ഥാപിക്കുകയും ചെയ്യുന്നു എന്നതാണ് exception ൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ഈ പുനസ്ഥാപനം നടക്കുന്നത് ഉദാഹരണത്തിന് ഒരു interrupt സംഭവിക്കുന്നുവെന്ന് പറയുമ്പോഴെല്ലാം എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന ആദ്യത്തെ കാര്യം മോണിറ്റർ മോഡിലെ കോഡ് ആണ് അതിനാൽ മോണിറ്റർ മോഡ് സംഭവിച്ച interrupt തിരിച്ചറിയും ഇത് നിലവിലെ ലോകത്തിന്റെ context സംരക്ഷിക്കും അതായത് സാധാരണ ലോകത്ത് ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുമ്പോൾ ആ പ്രത്യേക ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ മോണിറ്റർ മോഡിൽ സംരക്ഷിക്കുകയും തുടർന്ന് സുരക്ഷിത ലോകത്തേക്ക് ഒരു context സ്വിച്ച് ഉണ്ടാവുകയും ആ പ്രത്യേക interrupt ന് സമാനമായ interrupt routine നടപ്പിലാക്കുകയും ചെയ്യുന്നു ആ interrupt service routine നടപ്പിലാക്കുകയും ഇന്ററപ്റ്റ് കൈകാര്യം ചെയ്യുകയും ചെയ്ത ശേഷം exception നിർദ്ദേശങ്ങളിൽ നിന്ന് ഒരു തിരിച്ചുവരവ് നടക്കുന്നു ഇപ്പോൾ ഇത് മോണിറ്റർ മോഡ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നതിന് കാരണമാകുകയും തുടർന്ന് മോണിറ്റർ എക്സിക്യൂട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷന്റെ അവസ്ഥ പുനസ്ഥാപിക്കുകയും ചെയ്യും ഇപ്പോൾ പ്രവർത്തനരീതിയുടെ ട്രാക്ക് സൂക്ഷിക്കുന്നതിന് ARM ന് NS ബിറ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ബിറ്റ് ഉണ്ട് കോൺഫിഗറേഷൻ രജിസ്റ്ററിലെ NS ബിറ്റ് ഇത് ഒരു സാധാരണ ലോകമാണോ അതോ നിലവിൽ ഓപ്പറേറ്റിംഗ് ലോകമാണോ എന്ന് സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് NS ബിറ്റ് 1 ന് തുല്യമാണെങ്കിൽ പ്രോസസർ സാധാരണ ലോകത്തിലാണെന്ന് സൂചിപ്പിക്കുന്നു NS ബിറ്റ് 0 ആണെങ്കിൽ അത് സുരക്ഷിതമായ ഒരു ലോക പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ NS ബിറ്റ് ഒരു കോൺഫിഗറേഷൻ രജിസ്റ്ററിലോ പ്രധാന പ്രോസസ്സറിലോ ഉണ്ട് NS ബിറ്റിന്റെ മൂല്യം അടിസ്ഥാനമാക്കി കോർടെക്സ് എ8 പ്രോസസ്സർ സാധാരണ മോഡിലോ സെക്യുർ മോഡിലോ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ പ്രോസസ്സറിലെ കാഷെ സാധാരണ ലോകത്തിനും സുരക്ഷിത ലോകത്തിനുമുള്ള മെമ്മറി ആക്സസ്സുകൾ തമ്മിൽ വേർതിരിച്ചറിയാൻ സഹായിക്കുന്നു എന്നാൽ ഈ മോഡ് സ്വിച്ച് ഉള്ളപ്പോൾ ഇനിയും വളരെയധികം കാര്യങ്ങൾ സംഭവിക്കുന്നു ഒരു പ്രധാന കാര്യം ഈ പ്രോസസ്സർ ന് പുറത്ത് ഈ NS ബിറ്റ് ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് അതിനാൽ system on chip ലെ നിലവിലുള്ള മറ്റ് ഘടകങ്ങളിലേക്കും പ്രവർത്തനരീതി കൈമാറ്റം ചെയ്യപ്പെടുന്നുവെന്ന് ഈ ചുവന്ന വര സൂചിപ്പിക്കുന്നു അതുപോലെ മറ്റ് ഘടകങ്ങൾക്കും സുരക്ഷിത ലോക പ്രവർത്തനവും സാധാരണ ലോക പ്രവർത്തനവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയും ഉദാഹരണമായി system on chip ലുള്ള മെമ്മറി കൺട്രോളറിന് ഒരു സാധാരണ ലോക ഓപ്പറേഷനായി നിർമ്മിച്ച മെമ്മറി ആക്സസും ഒരു സുരക്ഷിതമായ ലോക ഓപ്പറേഷനിലേക്കുള്ള മെമ്മറി ആക്സസും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയും എന്ന പ്രധാനപ്പെട്ട കാര്യം പിന്നീട് നമ്മൾ കാണും ഇപ്പോൾ നമ്മൾ ട്രസ്റ്റ്സോണിലുള്ള മെമ്മറി മാനേജുമെന്റിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി നോക്കുന്നു നമ്മൾ കണ്ടതുപോലെ ഒരു കോർടെക്സ് എ 8 സിപിയു കോർ ന് സുരക്ഷിത ലോകത്തിൽ നിന്നും സാധാരണ ലോകത്തിലേക്ക് മാറാൻ കഴിയും സിപിയു കോൺഫിഗറേഷൻ രജിസ്റ്ററിൽ നിലവിലുള്ള NS ബിറ്റ് ഏത് ലോകത്തെ എക്സിക്യൂട്ട് ചെയ്യുന്നുവെന്ന് തിരിച്ചറിയും ഓരോ തവണയും ഈ ലോകങ്ങളിലൊന്നിൽ നിന്ന് load അല്ലെങ്കിൽ store നിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും ഈ ലോകങ്ങളിലൊന്നിൽ നിന്ന് ഒരു നിർദ്ദേശം ലഭിക്കുമ്പോഴെല്ലാം ഒരു bus വഴി virtual address നെ മെമ്മറി മാനേജുമെന്റ് യൂണിറ്റിലേക്ക് കൊടുക്കും 32 ബിറ്റ് ARM കോർ ബസ്സിന് 32 ബിറ്റ് വിർച്വൽ address നൽകും ഇപ്പോൾ ട്രസ്റ്റ്സോൺ പ്രോസസ്സറുകളിൽ NSTID ബിറ്റ് എന്നറിയപ്പെടുന്ന ഒരു അധിക ബിറ്റ് 33 ാമത്തെ ബിറ്റ് ബസ്സിന് നൽകുകയും അതുവഴി അതിനു പ്രൊസസ്സറിന്റെ നിലവിലെ അവസ്ഥയെ തിരിച്ചറിയാനും കഴിയും ഇത് 0 ആണെങ്കിൽ OSലേക്ക് അഭ്യർത്ഥിക്കപ്പെട്ട loadstore instruction സുരക്ഷിത ലോകത്തിൽ നിന്നുള്ളതാണെന്ന് സൂചിപ്പിക്കുന്നു ബിറ്റ് 1 ആണെങ്കിൽ loadstore instructions ലഭ്യമാക്കുന്നത് ഒരു സാധാരണ ലോകത്തിൽ നിന്നാണെന്ന് സൂചിപ്പിക്കുന്നു NSTID ബിറ്റ് 1 ആണെങ്കിൽ NS ബിറ്റ് 1 ആവാൻ നിർബന്ധിതമാകുന്നു ഈ അധിക NSTID ബിറ്റ് MMUവിലേക്ക് അയക്കുകയും loadstore instruction സുരക്ഷിത ലോകത്തിൽ നിന്നോ അതോ സാധാരണ ലോകത്തിൽ നിന്നോ ഉള്ള instruction ആണെന്ന് തിരിച്ചറിയാൻ MMUന് കഴികയും ചെയ്യുന്നു അതിനാൽ ഈ NSTID ബിറ്റിനെ അടിസ്ഥാനമാക്കി MMUന് page tables തിരഞ്ഞെടുക്കാനൊ അല്ലെങ്കിൽ സുരക്ഷിത ലോകത്തിനോ സാധാരണ ലോകത്തിനോ വേണ്ടി ഉദ്ദേശിക്കുന്ന page tables ഉപയോഗിക്കാനൊ കഴിയും page tablesvirtual address നെ അനുബന്ധ physical address ലേക്ക് പരിവർത്തനം ചെയ്യുന്നു ഓരോ പേജ് tableനും സുരക്ഷിത ലോക പേജുകളുമായോ സാധാരണ ലോക പേജുകളുമായോ ബന്ധപ്പെട്ട പേജുകളിലേക്ക് പോയിന്റ് ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് ഒരു പ്രത്യേക virtual address ലേക്ക് ഒരു ലോഡ് അല്ലെങ്കിൽ store instruction ഉണ്ടെങ്കിൽ അത് ഒരു സാധാരണ ലോക മെമ്മറി അഭ്യർത്ഥനയാണെന്ന് സൂചിപ്പിക്കുന്ന NSTID ബിറ്റ് 1 ആയി സജ്ജീകരിച്ചിട്ടുണ്ടാവും MMU സാധാരണ ലോക page tables ഉപയോഗിക്കുകയും ചെയ്യും അതിനാൽ virtual address അനുബന്ധ physical address ലേക്ക് വിവർത്തനം ചെയ്യപ്പെടും ഈ മാപ്പിംഗ് വഴി സാധാരണ ലോക പേജുകൾ മാത്രമേ ആക്സസ് ചെയ്യാൻ കഴിയൂ ഇപ്പോൾ ഈ പ്രത്യേക virtual address RAMലെ ഈ സാധാരണ ലോക പേജുകളിലൊന്നിൽ ആണെങ്കിൽ loadstore instruction വിജയിക്കും മറുവശത്ത് ഒരു സുരക്ഷിത ലോക പേജുമായി യോജിക്കുന്ന ബസ്സിൽ ആണെങ്കിൽ അവിടെ ഒരു trap ഉണ്ടാകും ഒപ്പം പ്രവർത്തനം അനുവദിക്കില്ല ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ MMUവിൽ ടിഎൽബിയും TLBTranslation Lookaside Buffer ഉൾപ്പെടുന്നു ഇപ്പോൾ ട്രസ്റ്റ്സോൺ കൂടി ഉൾപ്പെട്ട ARM കോറിൽ TLB ചെറുതായി പരിഷ്ക്കരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ സാധാരണ മെമ്മറി മാനേജുമെന്റ് യൂണിറ്റിലും TLB ഉണ്ട് virtual addressഉം അനുബന്ധ physical addressഉം തമ്മിൽ ബന്ധിപ്പിക്കാൻ ടിഎൽബിക്ക് കഴിയും അതിനാൽ page table ഉപയോഗിച്ച് ചെയ്ത ഈ മാപ്പിംഗ് TLB ൽ സംഭരിച്ചിരിക്കുന്നു ടിഎൽബി പൂർണ്ണമായും set associative cache ആയിരിക്കും കൂടാതെ എക്സിക്യൂഷന്റെയും മെമ്മറി ആക്സസിന്റെയും പ്രാദേശികത കാരണം ടിഎൽബിയിൽ നിലവിലുള്ള virtual physical address മാപ്പിംഗ് കണ്ടെത്താൻ നമ്മൾക്കു കഴിയുകയും ഇത് ഓവർഹെഡ് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇപ്പോൾ ട്രസ്റ്സോൺ ഉൾപ്പെട്ട ARM പ്രോസസ്സർ TLB അൽപ്പം പരിഷ്ക്കരിച്ചു ടിഎൽബിയുടെ ഓരോ എൻട്രിയും വിർച്വൽ അഡ്രസ്സ് ഉം അനുബന്ധ ഫിസിക്കൽ അഡ്രസ്സ് ഉം മാത്രമല്ല വിർച്വൽ അഡ്രസ്സ് ഉം ആയി ബന്ധപ്പെട്ട NSTID ബിറ്റിനെക്കുറിച്ചും ഫിസിക്കൽ അഡ്രസ്സ് ഉം ആയി ബന്ധപ്പെട്ട NS ബിറ്റിനെക്കുറിച്ചും വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു സാധാരണ ലോക പ്രവർത്തനത്തെയോ സുരക്ഷിതമായ ലോക പ്രവർത്തനത്തെയോ സംബന്ധിച്ച് വെർച്വൽ അഡ്രസ്സ് ആവശ്യമാണോ എന്ന് ഇത് തിരിച്ചറിയും ഒരു ഫിസിക്കൽ അഡ്രസ്സ് ഉം ആയി ബന്ധപ്പെട്ട പേജുമായി വിലാസം സുരക്ഷിതമോ സാധാരണ ലോകമോ യോജിക്കുന്നുണ്ടോ എന്ന് പറയാനുള്ള വിവരങ്ങളും ഇതിലുണ്ട് അതിനാൽ ഈ ടിഎൽബിയെ അടിസ്ഥാനമാക്കി സുരക്ഷിത പേജുകളും സാധാരണ ലോക പേജുകളും ആക്സസ് ചെയ്യുന്നതിന് ഒരു സുരക്ഷിത ലോക page table അനുവദിക്കുന്നതിന് എംഎംയുവിന് ടിഎൽബി ഉപയോഗിക്കാൻ കഴിയും ഈ പ്രത്യേക ടിഎൽബി ഉള്ളതിലൂടെ സുരക്ഷിത ലോക വെർച്വൽ വിലാസം അനുവദിക്കുന്നതിന് എംഎംയുവിന് ടിഎൽബി ഉപയോഗിക്കാൻ കഴിയും മറുവശത്ത് ഒരു സാധാരണ ലോക page table സുരക്ഷിത ലോക പേജ് ആക്സസ് ചെയ്യുന്നതിൽ നിന്നും ഇത് തടയുകയും ചെയ്യും എംഎംയുവിന് പുറമേ ട്രസ്റ്റ്സോൺ ഉൾപ്പെട്ട ARM പ്രോസസറുകളിലെ കാഷെ മെമ്മറിയും പരിഷ്ക്കരിച്ചു സുരക്ഷിത ലോകത്തിലെയും സാധാരണ ലോകത്തിലെയും മെമ്മറി അഭ്യർത്ഥന ഒരേ കാഷെയിൽ ഒരുമിച്ച് സൂക്ഷിക്കുന്നു ടാഗിൽ എൻഎസ് ബിറ്റ് എന്നറിയപ്പെടുന്ന ഒരു അധിക ബിറ്റ് കൂടി ഉൾപ്പെടുത്തി ടാഗ് പരിഷ്ക്കരിച്ചതിനാൽ ഓരോ ടാഗിലും എൻഎസ് ബിറ്റ് അടങ്ങിയിരിക്കുന്നു ടാഗിനെയും എൻഎസ് ബിറ്റ് നിലവിലുള്ളതിനെയും അടിസ്ഥാനമാക്കി ഒരു മെമ്മറി അഭ്യർത്ഥന അനുബന്ധ കാഷെ ലൈൻ ഒരു സുരക്ഷിത ലോക കാഷെ ലൈനിനാണോ അല്ലെങ്കിൽ ഒരു സാധാരണ ലോക കാഷെ ലൈനിനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയും ഇവ എല്ലാം പ്രവർത്തിക്കുന്നതിന് ട്രസ്റ്റ്സോൺ ഉൾപ്പെട്ട ARM പ്രോസസറുകളിലെ മെമ്മറി മാനേജുമെന്റ് യൂണിറ്റ് പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഉദാഹരണത്തിന് നാം കണ്ട മെമ്മറി മാനേജുമെന്റ് യൂണിറ്റിന് പുറമേ രണ്ട് വെർച്വൽ മെമ്മറി മാനേജുമെന്റ് യൂണിറ്റുകളും ഉണ്ട് പ്രോസസർ സുരക്ഷിത ലോകത്തിലാണോ സാധാരണ ലോകത്തിലാണോ പ്രവർത്തിക്കുന്നതെന്ന് നിർണ്ണയിക്കുന്ന എൻഎസ് ബിറ്റ് അവ സിസ്റ്റത്തിലുള്ള മറ്റെല്ലാ ഘടകങ്ങളിലേക്കും ഇത് അറിയിക്കുകയും ചെയ്യും ഒരു പ്രത്യേക മോഡിൽ നിന്ന് മാത്രം പ്രവർത്തിക്കുന്നതിന് സിസ്റ്റത്തിലെ ഒരു പ്രത്യേക ഘടകം ക്രമീകരിക്കാൻ കഴിയും ഉദാഹരണത്തിന് നമ്മൾ കാണുന്നത് ജിഎസ്എം മോഡം 3 ജി മോഡം മീഡിയ സിസ്റ്റം എന്നിവ വ്യത്യസ്തമായി ക്രമീകരിച്ചിരിക്കുന്നു അതിനാൽ പ്രധാന പ്രോസസർ സുരക്ഷിത ലോകത്ത് ആയിരിക്കുമ്പോൾ മാത്രമേ ജിഎസ്എം മോഡം പ്രവർത്തിക്കൂ മറുവശത്ത് 3 ജി മോഡം സുരക്ഷിത ലോകത്ത് നിന്നും സാധാരണ ലോകത്തിൽ നിന്നും പ്രവർത്തിക്കാൻ തക്കവിധം ക്രമീകരിച്ചിരിക്കുന്നു പ്രധാന പ്രോസസർ സാധാരണ ലോകത്ത് പ്രവർത്തിക്കുമ്പോൾ ജിഎസ്എം മോഡം ആക്സസ് ചെയ്യാൻ കഴിയില്ല അതുപോലെ സാധാരണ ലോകത്ത് പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനുകൾക്ക് എസ്ഒസിയിൽ ജിഎസ്എം മോഡം ഉണ്ടെന്ന് കാണാൻ പോലും കഴിയില്ല കൂടാതെ ജിഎസ്എം മോഡമിലേക്ക് ആശയവിനിമയം നടത്താനും സാധ്യമല്ല പ്രധാന പ്രോസസ്സർ സുരക്ഷിത ലോകത്ത് ആയിരിക്കുമ്പോഴോ സുരക്ഷിത ലോകത്തിനായി കോൺഫിഗർ ചെയ്യുമ്പോഴോ ജിഎസ്എം മോഡം 3 ജി മോഡം തുടങ്ങിയ മറ്റെല്ലാ ഉപകരണങ്ങളും ആക്സസ് ചെയ്യപ്പെടും അതിനാൽ സുരക്ഷിതമായ ലോകത്ത് മാത്രം പ്രവർത്തിക്കാൻ കീപാഡ് ക്രമീകരിക്കാൻ കഴിയുന്നിടത്ത് ഈ സാങ്കേതികവിദ്യ പ്രധാനമായും ഉപയോഗപ്രദമാണ് നാം പാസ്വേഡുകളോ പ്രിന്റുകളോ മറ്റെന്തെങ്കിലുമോ നൽകുമ്പോഴെല്ലാം ഈ പാസ്വേഡുകളും പ്രിന്റുകളും ഒരു കീപാഡിലൂടെ മാത്രമേ ആക്സസ് ചെയ്യാൻ കഴിയൂ അത് സുരക്ഷിത ലോകത്ത് പ്രവർത്തനക്ഷമമാക്കിയിരിക്കുന്നതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള സ്നിപ്പിംഗ് ആക്രമണങ്ങളിൽ നിന്നും സുരക്ഷിതമാണ് അതിനാൽ ട്രസ്റ്റ്സോണിനെ സംബന്ധിച്ചിടത്തോളം interrupts ഒരു നിർണായക ഘടകമാണ് നമ്മൾ കണ്ടതുപോലെ ഇവിടെ ഒരു മോണിറ്റർ മോഡ് ഉണ്ട് മോണിറ്റർ സുരക്ഷിത ലോകത്തിന്റെ ഭാഗമാണ് അതിനാൽ interrupt വരുമ്പോഴെല്ലാം അത് ആദ്യം മോണിറ്റർ മോഡിലേക്ക് മാറ്റപ്പെടും മോണിറ്റർ മോഡ് നിലവിലെ എക്സിക്യൂട്ടിംഗ് പരിതസ്ഥിതിയുടെ സന്ദർഭം സംരക്ഷിക്കുകയും തുടർന്ന് ആ interrupt ഒരു സാധാരണ ലോക ആപ്ലിക്കേഷനോ സുരക്ഷിതമായ ലോക ആപ്ലിക്കേഷനോ നൽകേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കും ഈ വിവിധ interrupts എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്നതിനെ അടിസ്ഥാനമാക്കി ഈ അഭ്യർത്ഥന സാധാരണ ലോകത്തിൻറെയോ സുരക്ഷിത ലോകത്തിൻറെയോ interrupt service routine ലേക്ക് മാറ്റപ്പെടും ഈ ലോകങ്ങളിൽ ഓരോന്നിനും അതിന്റേതായ interrupt service routine ഉണ്ടായിരിക്കും അത് interrupt അഭ്യർത്ഥന പരിശോധിക്കുകയും അനുബന്ധ interrupt service routine എവിടെയാണെന്ന് നിർണ്ണയിക്കുകയും തുടർന്ന് അത് നടപ്പിലാക്കുകയും ചെയ്യും ഉദാഹരണത്തിന് ഇവിടെ നമ്മൾക്കു Android OS ൽ പ്രത്യേക കോഡ് ഉണ്ടാകാം ഉദാഹരണത്തിന് ഒരു നെറ്റ്വർക്ക് interrupt സംഭവിക്കുന്നുവെന്നും നെറ്റ്വർക്ക് interruptകൾ സാധാരണ ലോകം കൈകാര്യം ചെയ്യാൻ ക്രമീകരിച്ചിട്ടുണ്ടെന്നും കരുതുക മോണിറ്റർ നിങ്ങളുടെ നെറ്റ്വർക്ക് ഇന്ററപ്റ്റ് പ്രിവിലേജ്ഡ് കോഡിലേക്ക് തിരിച്ചു വിടും അത് പ്രധാനമായും Android ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാകാം നിങ്ങളുടെ Android OS പിന്നീട് സാധാരണ ലോക interrupt vector table നോക്കുകയും നെറ്റ്വർക്ക് interruptന് അനുയോജ്യമായ interrupt service routine തിരിച്ചറിയുകയും അനുബന്ധ സേവനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും മറുവശത്ത് സുരക്ഷിതമായ ലോകത്ത് ഒരു interrupt സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മോണിറ്റർ അതിനെ വഴി തിരിച്ചു വിടുകയും തുടർന്ന് ഒരു സുരക്ഷിത ലോക interrupt vector table നോക്കുകയും അതിനു അനുയോജ്യമായ interrupt service routine തിരിച്ചറിയുകയും ചെയ്യും ഒരു സാധാരണ സുരക്ഷിത ലോക സോഫ്റ്റ്വെയർ എങ്ങനെ കാണപ്പെടുന്നുവെന്ന് നമുക്ക് നോക്കാം ഒരു സാധാരണ സുരക്ഷിത ലോക സോഫ്റ്റ്വെയറിന് synchronous code ലൈബ്രറികളുടെ വളരെ ചുരുങ്ങിയ നടപ്പാക്കലുകൾ ഉണ്ടാകും സാധാരണയായി നമുക്ക് സുരക്ഷിത ലോകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും ഇത് വളരെ കുറഞ്ഞ പ്രവർത്തനക്ഷമതയുള്ള പ്രത്യേക ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് Qualcomm's QSEE Trustonics Kinibi Samsung Knox Genode തുടങ്ങിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ സുരക്ഷിത ലോക ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെ അനുബന്ധ rich ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുമായി കർശനമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ റിച്ച് ഒഎസിലെ ഒരു ടാസ്ക്കിന്റെ മുൻഗണന സുരക്ഷിതമായ ഒഎസിലെ അനുബന്ധ മുൻഗണനയിലേക്ക് മാപ്പുചെയ്യാൻ കഴിയും ഒരു full OS ഉള്ളതിന്റെ പ്രയോജനം അതിന് പൂർണ്ണ MMU പിന്തുണ ഉണ്ടായിരിക്കും എന്നതാണ് ഒരു ട്രസ്റ്റ്സോണിനെ സംബന്ധിച്ച് നിർണായകമായ ഒരു കാര്യം secure ബൂട്ട് എന്നറിയപ്പെടുന്നു secure ബൂട്ട് ആവശ്യപ്പെടുന്നതിനുള്ള കാരണം ഇനിപ്പറയുന്നവയാണ് സുരക്ഷിത ലോകം ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ പക്കലുണ്ടെന്ന് കരുതുക ആപ്ലിക്കേഷൻ ഫ്ലാഷിൽ store ചെയ്യപ്പെടുമെന്നും ഒരു ആക്രമണകാരിക്ക് ഫ്ലാഷ് memory contents modify ചെയ്യാം എന്നും അതിനാൽ ആ ആപ്ലിക്കേഷന്റെ സുരക്ഷിത ഘടകങ്ങൾ പരിഷ്കരിക്കാമെന്നും നമ്മൾക്കറിയാം ഉദാഹരണത്തിന് ആക്രമണകാരി ട്രോജനോ മറ്റേതെങ്കിലും malware ഓ അപ്ലിക്കേഷന്റെ സുരക്ഷിത ഘടകത്തിൽ ഉൾപ്പെടുത്തും അതിനാൽ ഫ്ലാഷിൽ store ചെയ്യപ്പെടുമ്പോൾ സുരക്ഷിതമായ ലോകത്തിന്റെ ഒരു സോഫ്റ്റ്വെയറും തകരാറിലാകില്ലെന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് secure ബൂട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് നേടാനുള്ള ഒരു മാർഗം chain of trust എന്നറിയപ്പെടുന്ന ഒന്നാണ് സുരക്ഷിത ബൂട്ട് പ്രവർത്തിക്കുന്ന രീതി ഈ പ്രത്യേക സംവിധാനത്തെ അടിസ്ഥാനമാക്കി സിസ്റ്റത്തിൽ റൂട്ട് device ൽ നിന്ന് ആരംഭിച്ച് ഒരു ട്രസ്റ്റ് സൃഷ്ടിക്കപ്പെടുന്നു ഇത് തകർക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് Refer Slide Time 2424 ഒരു സാധാരണ chain of trust ഇതുപോലെയാണ് ട്രസ്റ്റിന്റെ റൂട്ട് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ഘടകത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് ഇത് ROM ചിപ്പിലെ Physically Unclonable Function അല്ലെങ്കിൽ ഒരു trusted platform മൊഡ്യൂൾ ആകാം നിങ്ങളുടെ ട്രസ്റ് റൂട്ട് ന്റെ അടിസ്ഥാനം ഇതാണ് ഇത് നിങ്ങളുടെ വിശ്വസനീയമായ മൊഡ്യൂളാണെന്ന് കരുതുക ഈ വിശ്വസനീയമായ മൊഡ്യൂൾ ബൂട്ട് ലോഡർ manipulate ചെയ്തിട്ടില്ലെന്ന് ആദ്യം സ്ഥിരീകരിക്കും നിങ്ങളുടെ ബൂട്ട് ലോഡറിന്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ തകരാറിലല്ലെന്ന് പരിശോധിച്ച് വേണം ഇത് ചെയ്യാൻ ബൂട്ട് ചെയ്യുന്ന സമയത്തെ ഈ ട്രസ്റ് റൂട്ട് ആദ്യം എക്സിക്യൂട്ട് ചെയ്യാൻ ആരംഭിക്കുകയും ബൂട്ട് ലോഡർ തകരാറിലല്ലെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു ആ ബൂട്ട് ലോഡറിന്റെ signature ശരിയാണോയെന്ന് ഇത് സ്ഥിരീകരിക്കും ഉദാഹരണത്തിന് MD5 അല്ലെങ്കിൽ SHA അല്ലെങ്കിൽ കൂടുതൽ സങ്കീർണ്ണമായ ഡിജിറ്റൽ signatures ആകാം ഇത് ബൂട്ട് ലോഡർ കൃത്രിമം കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ തകരാറിലല്ലെന്ന് ഉറപ്പുവരുത്താൻ സഹായിക്കുന്നു ബൂട്ട് ലോഡറിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് നിർണ്ണയിക്കുകയാണെങ്കിൽ അത് ബൂട്ട് ലോഡറിലേക്കു എക്സിക്യൂഷൻ കൈമാറുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും ബൂട്ട് ലോഡർ അതിന്റെ എക്സിക്യൂഷൻ പൂർത്തിയാക്കിയ ശേഷം സുരക്ഷിത OS ബൂട്ട് ചെയ്യുന്നു ആദ്യം സുരക്ഷിത ഒഎസിന്റെ signature ശരിയാണെന്ന് നിർണ്ണയിക്കാൻ ഇതിന് കഴിയും ഇത് footprints പരിശോധിച്ച് അല്ലെങ്കിൽ ഫ്ലാഷിൽ നിലവിലുള്ള സുരക്ഷിത ഒഎസിന്റെ signature കണക്കുകൂട്ടി പരിശോധിച്ചുറപ്പിക്കാൻ കഴിയും പിന്നീട് മുൻകൂട്ടി സംഭരിച്ച signature ഉപയോഗിച്ച് ഈ പ്രത്യേക signature പരിശോധിച്ചുറപ്പിക്കുക സുരക്ഷിത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ signature നേരത്തെ സംഭരിച്ചിരിക്കുന്ന signature ആയി പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടെത്തിയാൽ സുരക്ഷിത OS ബൂട്ട് ചെയ്യില്ല മറുവശത്ത് സുരക്ഷിത OS ൽ ഒരു തകരാറും സംഭവിച്ചിട്ടില്ലെന്നു ബൂട്ട് ലോഡർ സ്ഥിരീകരിച്ചാൽ അത് സുരക്ഷിത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ബൂട്ട് ചെയ്യാൻ അനുവദിക്കും സുരക്ഷിത ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിവിധ ടാസ്ക്ലെറ്റുകളുമായി യോജിക്കും നമ്മൾമുമ്പ് കണ്ടതുപോലെ ഈ ടാസ്ക്ലെറ്റുകളിലേതെങ്കിലും സൃഷ്ടിക്കുന്നതിനുമുമ്പ് ഈ tasklets ഓരോന്നും തകരാറിലല്ലെന്ന് തിരിച്ചറിയുന്നു ഈ രീതിയിൽ വിവിധ ടാസ്ക്ലെറ്റുകൾ സൃഷ്ടിക്കുന്നത് അവയുടെ signature കൾ authenticate ചെയ്തതിനു ശേഷം മാത്രമാണ് വളരെ സമാനമായ രീതിയിൽ rich ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ signature ശരിയാണെന്ന് സ്ഥിരീകരിച്ചതിനുശേഷം മാത്രമേ സുരക്ഷിത ഒ എസ് rich ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ബൂട്ട് ആരംഭിക്കുകയുള്ളൂ ഈ രീതിയിൽ root of trust ന്റെ സാന്നിധ്യം കാരണം ഒരു chain of trust നിർമ്മിക്കുന്നു ആദ്യം നമ്മൾ ബൂട്ട് ലോഡറിൽ വിശ്വാസം നേടുന്നു തുടർന്ന് സുരക്ഷിത OS ൽ നിന്നും rich OS ടാസ്ക്ലെറ്റിൽ നിന്നും നമ്മൾ വിശ്വാസം നേടുന്നു ഇപ്പോൾ ഫ്ലാഷിൽ ഈ മൊഡ്യൂളുകളിലേതെങ്കിലും തകരാറുണ്ടെങ്കിൽ ഇത് സുരക്ഷിതമായ chain of trust ലൂടെ കണ്ടെത്താനാകും ഈ വിശ്വാസത്തിന്റെ റൂട്ട് തകർക്കാൻ കഴിയില്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ ബ്ലോക്ക് ഡയഗ്രാമിലേക്ക് നോക്കുകയാണെങ്കിൽ മോണിറ്റർ സുരക്ഷിത ലോകത്തിന്റെ ഭാഗമാണെന്ന് കാണുന്നു സുരക്ഷിതമായ ലോകത്തിന്റെ ഭാഗമായി മോണിറ്റർ കൈവശം വയ്ക്കുന്നതിനുള്ള യുക്തി എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അടുത്ത പ്രഭാഷണത്തിൽ ഇന്റൽ എസ്ജിഎക്സ് trusted execution environment നെ കുറിച്ചു പരിശോധിക്കും നന്ദി